എല്ലാവർക്കും അനിമൽ സെൽ കൾച്ചറിൻറെ അധ്യാന പരമ്പരയിലെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ മൂന്നാം വാരത്തിലെ അഞ്ചാം ഭാഗത്തിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ വളരെ ആകർഷകമായ ചില കാര്യങ്ങൾ പറഞ്ഞാണ് നിർത്തിയത് ഓരോ കോശങ്ങളും അവയ്ക്ക് പ്രത്യേകമായ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിലെ കാർഡിയാക് സെൽസ് ഈ ഭാഗത്ത് വളരും പിന്നെ തലച്ചോറിലെ ബ്രെയിൻ സെൽസ് ഇവിടെ വളരും നമുക്ക് മാംസപേശികൾ ഉള്ളത് ഇവിടെയാണ് അവിടെ സ്കെലിട്ടൽ മസിൽസ് ഉണ്ടാവും ഓരോന്നിനും അതിൻറെതായ് മെക്കാനിക്കൽ പ്രോപ്പർട്ടിഉണ്ട് ഉദാഹരണത്തിന് ഞാനിവിടെ ഹൃദയത്തിൻറെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി യെ കുറിച്ച് പറയുമ്പോൾ അതിന് സ്കെലിട്ടൽ മസിൽസിൻറെയും ബ്രെയിൻ സെൽസിൻറെയും മെക്കാനിക്കൽ പ്രോപ്പർട്ടിയുമായി വ്യത്യാസമുണ്ട് ഇവിടെ ഞാൻ വളരെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് മറ്റു ഉദാഹരണങ്ങളും നോക്കാവുന്നതാണ് ഉദാഹരണത്തിന് അന്നനാളത്തിലെ ഉൾശിലയിൽ ഉള്ള കോശങ്ങൾ സ്മൂത്ത് മസിലിൻറെ ആണ് ഭക്ഷണം അതിലൂടെയാണ് നീങ്ങി പോകുന്നത് എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി നിങ്ങളുടെ ഹൃദയം തുടിക്കാറുണ്ട് അതിന് അർത്ഥം അതിലെ കോശങ്ങൾ ഇങ്ങനെ അനങ്ങുക ആണ് അല്ലേ ഇനി ഇത് കേട്ടതിനുശേഷം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഉദാഹരണത്തിന് ഇതാണ് നിങ്ങളുടെ ഹൃദയത്തിലെ കോശങ്ങൾ എളുപ്പത്തിന് ഞാനിവിടെ കോശങ്ങളെ സസ്പെൻഡഡ് രീതിയിൽ ആണ് നിർത്തുന്നത് ഇവിടെ കാണുന്ന നീല നിറം ഒരുതരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ് ഈ കോശങ്ങളെല്ലാം തമ്മിൽ ഒട്ടിപിടിക്കുന്നത് ഈ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് കാരണമാണ് അവ അടുത്തുള്ള ടിഷ്യുകൾ ആയും ഈ മെട്രിക്സ് കാരണം ഒട്ടിപ്പിടിക്കാറുണ്ട് ഇപ്പോ ഈ കോശങ്ങൾ അനങ്ങുക ആണ് പലതരത്തിലുള്ള അനക്കങ്ങൾ ഈ കോശങ്ങളിൽ ഉണ്ടാവും ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള അനക്കം ഉണ്ടാവും ഇതുപോലെത്തെ ചുരുങ്ങൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതു പോലെ ചുരുങ്ങും അപ്പൊ എല്ലാ സമയവും അത് ഇങ്ങനെ അനങ്ങുമ്പോൾ അതിനെ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തും അനക്കം വരും നോക്കൂ ഈ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും സ്ട്രേയിനും സ്ട്രെച്ചും ഉണ്ടാകും എല്ലാ സമയവും അപ്പോൾ നേരത്തെ വരച്ച വെച്ചിരുന്ന സ്ഥലത്തേക്ക് വരാം ഈ സാധനത്തിന് ഒരു ഫ്ലെക്സിബിൾ ആം ഉണ്ട് അത് കാരണമാണ് ഇതിന് ഇങ്ങനെ അനങ്ങാൻ പറ്റുന്നത് ഇങ്ങനെ ചിന്തിക്കുക ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള ശക്തി കോശങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ശക്തിയേക്കാൾ കൂടുതലാണെങ്കിൽ കാരണം ചുരുങ്ങുന്നത് കാരണമുള്ള ശക്തി ഘടിപ്പിച്ചിരിക്കുന്ന ശക്തിയേക്കാൾ കൂടുതലാണ് അപ്പോൾ ഇവിടെ രണ്ടു തരത്തിലുള്ള ശക്തികൾ ഇവയുടെ അനക്കം കാരണം ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നോക്കാം ഇവിടെ ഇങ്ങനെയാണ് ബന്ധിച്ചിരിക്കുന്നത് ഇതാണ് കോശം ഇതാണ് ബന്ധിച്ചിരിക്കുന്ന സ്ഥലം ഇവിടെ ആണ് സബ്സ്ട്രേറ്റ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ശക്തി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു മറ്റൊരു ശക്തി ചുരുങ്ങൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആക്ടിവിറ്റി വഴിയോ ഉണ്ടാകുന്നു ഞാനിപ്പോൾ ഈ ശക്തിയെ F' ആയും ഒട്ടി പിടിക്കാനുള്ള ശക്തിയെ F" ആയും അടയാളപ്പെടുത്തുന്നു ന്യൂട്ടൻ പറഞ്ഞത് അനുസരിച്ച് ഇപ്പോ F'F" നേക്കാൾ വലുതാണെങ്കിൽ എന്ത് സംഭവിക്കും കോശങ്ങൾ അവിടെനിന്ന് ഇളകി മാറും ആ കോശങ്ങൾ അവിടെത്തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ അതിനെ അവിടെത്തന്നെ ഇരിക്കാനുള്ള പ്രേരണ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിൻറെ അനക്കത്തെ ആ രീതിയിൽ മാറ്റേണ്ടതാണ് അതായത് നേരെ നീങ്ങുന്ന രീതിയിൽ അതായത് ഈ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലവും അതുപോലെ അനങ്ങും എന്ന് നിങ്ങൾക്ക് എൻറെ നിരീക്ഷണം മനസ്സിലായല്ലോ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് സബ്സ്ട്രേറ്റ് ഉണ്ട് അതിൽ വേറെ പ്രത്യേക മോളിക്യൂൾസ് ഇല്ല ഈ ഗ്ലാസ് സബ്സ്ട്രേറ്റിൻറെ മുകളിലോട്ട് ഇതുപോലൊരു സംഭവം വെച്ച് അലങ്കരിക്കുക നിങ്ങടെ കോശങ്ങൾ ഇവിടെ വരുമ്പോൾ അത് ഇവിടെ വന്നിരിക്കും ആ വരുന്ന കോശങ്ങൾ ഒരു സംഭവം പുറത്തേയ്ക്ക് വിടും ഈ പുറത്തു വരുന്നത് ഇതുമായി ബന്ധിക്കപ്പെട്ടും നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ നിറം മാറ്റുകയാണ് ഇവിടെ ചുവപ്പുനിറം ഉപയോഗിക്കുന്നു ഇവിടെ ചുവപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപരിതലത്തിൽ നമ്മൾ വെച്ച സംഭവങ്ങളാണ് പിങ്ക് ഉദ്ദേശിക്കുന്നത് കോശങ്ങൾ പുറത്തുവിട്ട സംഭവങ്ങളാണ് അപ്പോൾ ഇവർ തമ്മിൽ ഇവിടെ ബന്ധപ്പെടും നമ്മൾ ഉപരിതലത്തിൽ വെച്ച സാധനങ്ങളുടെ മോളിക്യൂൾ ആണിത് അത് ഇങ്ങനെ ആടുന്നു ഇത് കോശങ്ങൾ വരുന്നത് ആണ് ഇത് കോശങ്ങൾ പുറത്തുവിടുന്ന സാധനങ്ങളുടെ കൈകൾ ആണ് അതും ഇങ്ങനെ ആടുന്നു ഇവർ രണ്ടുപേരും ഒരു ബന്ധനം ഇവിടെ ഉണ്ടാകുന്നു ദാ നോക്കൂ ഇപ്പോൾ ഇവർക്ക് കുറച്ചു നന്നായിട്ട് അനങ്ങാൻ സാധിക്കും അപ്പോൾ ഇതാണ് നേരത്തെ മുതൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സബ്സ്ട്രേറ്റ് വെസലിനെ കുറിച്ച് അതിൽ വരുത്തുന്ന വ്യത്യാസത്തെക്കുറിച്ച് ഉപരിതലത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് ഓക്കെ എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു ഇതെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനു മുമ്പ് വേറൊരു കാര്യം നോക്കാം പല കോശങ്ങൾ പല ഇടത്താണ് ഞാൻ ഇവിടെ ഉദാഹരണത്തിന് ഇന്ന് നാല് കോശങ്ങൾ എടുക്കുന്നു ഇന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നാമത് കാർഡിയോ മയോസൈറ്റ് രണ്ടാമത്തേത് സ്കെലിട്ടൽ മസിൽ മൂന്നാമത്തേത് സ്മൂത്ത് മസിൽ നാലാമത്തേത് ബ്രെയിനിലേ ന്യൂറോൺസ് അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള മസിലുകൾ ആണ് അല്ലെങ്കിൽ കോശങ്ങളാണ് കാരണം ഇവിടെ ന്യൂറോൺ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കോശങ്ങൾ എന്നേ പറയാൻ പറ്റൂ ഈ മസിലിൻറെ അകത്ത് തന്നെ പലതരത്തിലുള്ള മെനക്കനോബയോളജി ഉണ്ട് അതിന് ഉപരിതലവും ആയിട്ടുള്ള മെക്കാനിക്കൽ ഇൻട്രാക്ഷൻ വ്യത്യസ്തമാണ് ചുറ്റുമുള്ള കോശങ്ങളും ആയിട്ടുള്ളതും വ്യത്യസ്തമാണ് അത് ഒരു പ്രത്യേകതരം ശക്തി ഇവിടെ രൂപീകരിക്കുന്നു ഈ ശക്തി രൂപീകരണം എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് മെറ്റീരിയൽextracellular matrix materials ൻറെ സെല്ലുലാർ കെമിസ്ട്രി അനുസരിച്ചാണ് അപ്പോൾ ഇവിടെ രണ്ടു കാര്യങ്ങളുണ്ട് അതിൻറെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി മാറുന്നുണ്ട് രണ്ടാമത്തേത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ECM മെറ്റീരിയലിൻറെ സെല്ലുലാർ കെമിസ്ട്രി അനുസരിച്ചിരിക്കും അപ്പോൾ ഇത് നന്നായി നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കോശങ്ങൾ അതിൻറെ സ്വന്തമായ പ്രത്യേകം കോളനി ഉണ്ടാക്കി നിൽക്കാൻ ആണ് താൽപര്യപ്പെടുന്നത് എന്ന് അതിനു പ്രത്യേക തരം സർഫസ് ഇൻട്രാക്ഷൻ കൂടിയുണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള കോശത്തെ വളർത്തുന്നു എങ്കിൽ നമുക്ക് അതിൻറെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് നെക്കുറിച്ച് ഒരു അറിവ് വേണം അതാണ് ഈ കോശങ്ങളെ അതിൻറെ സ്വന്തം പരിസ്ഥിതിയിൽ വളരുന്നു എന്ന് തോന്നിപ്പിക്കുന്നത് ഇത് ഒരു കാര്യമാണ് നിങ്ങൾ ഈ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിൻറെ സ്വഭാവം അറിഞ്ഞതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ സബ്സ്ട്രേറ്റ് വെക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കോശം 1 ആണ് വളർത്തേണ്ടത് എങ്കിൽ നിങ്ങൾ ഈ സബ്സ്ട്രേറ്റ് ഇവിടെ വെക്കണം അതിൻറെ മുകളിൽ നിങ്ങൾ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് പ്രോട്ടീൻ അല്ലെങ്കിൽ മെറ്റീരിയൽ കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഇത് അതിൻറെ മുകളിൽ വയ്ക്കണം ഇത് ഒരു വ്യത്യാസം വരുത്തിയ രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ദാ ഇവിടെ കോശങ്ങൾ വരുന്നു അവർ ഇവിടെ ഉരുളുന്നു മീഡിയത്തിന്റെ മുകളിലൂടെ അത് ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രൊഡക്ഷൻ നോക്കുന്നു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻട്രൊഡക്ഷൻ അങ്ങനെ അത് സബ്സ്ട്രേറ്റ് അടുത്ത് വന്നു നിൽക്കുന്നു ഇങ്ങനെ വരാനുള്ള കാരണം ഇതുവരെ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഇതിൻറെ മുകളിലുള്ളത് കാരണമാണ് അത് ഈ കോശങ്ങളുടെ സർഫസ് റിസപ്റ്റർലൂടെ ഒരു സിഗ്നൽ അതിൻറെ ഡിഎൻഎയിൽ ലോട്ട് വിട്ട് ഒരു പ്രോട്ടീൻ ഇവയെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നു അതാണ് ഇവയെ സബ്സ്ട്രേറ്റുമായി ബന്ധിക്കാൻ സഹായിക്കുന്നത് ഇതു നോക്കൂ അവർ തമ്മിൽ ഒരു ബന്ധം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു ഇങ്ങനെയാണ് ഒരു കോശം അതിൻറെ യഥാർത്ഥ സ്ഥലത്തു നിന്നും മാറി ജീവിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോശത്തെ അതിൻറെ വീട്ടിൽ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്ത് കല്യാണം കഴിപ്പിച്ചു വിടുകയാണ് കല്യാണം കഴിച്ചു വിടുന്ന സ്ഥലത്ത് സബ്സ്ട്രേറ്റ് ആണ് ഉള്ളത് ആ വീട് എന്ന് പറയുന്നത് നിങ്ങളുടെ വെസ്സൽ ആണ് ഇനി അത് അവിടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരിസ്ഥിതി അവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആണ് ആ പരിസ്ഥിതി കാരണം അതിന് അത് അതിൻറെ വീട്ടിൽ നിൽക്കുകയാണ് എന്ന് തോന്നണം ഇനി ചില തരത്തിലുള്ള കോശങ്ങൾ അവ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അറിയില്ല പക്ഷേ അവർ അവരുടെ എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് എവിടെ വേണമെങ്കിലും വളരും അവരെ റോഗ് സെൽ എന്നു പറയും നിങ്ങൾ റോഗ് നേഷകൺസ് എന്നുപറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ റോഗ് സെൽ ഈ കോശങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വളരാൻ പറ്റും ഏത് എക്സ്ട്രാ സെല്ലുലാർ പരിസ്ഥിതിയിൽ ആണേലും അതിന് വളരാൻ പറ്റും മറ്റു ചിലപ്പോൾ അതിനു എക്സ്ട്രാ സെല്ലുലാർ ഇല്ലാതെ ഇവ വളരും ഈ റോഗ് സെൽ ആണ് ക്യാൻസറിന്റെ തുടക്കം അപ്പോൾ നമുക്ക് ഇവയെ കാൻസർ സെൽ എന്ന് വിളിക്കാം ഈ കോശങ്ങൾക്ക് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ആയിട്ടുള്ള ബന്ധം വിട്ട് എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്തു അവിടെ ഒരു കോളണി ഉണ്ടാക്കാൻ സാധിക്കും എന്നിട്ടവർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവിടെയുള്ള കോശങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം വലിച്ചെടുക്കും അങ്ങനെ അവിടെയുള്ള കോശങ്ങളെ വികലാംഗരാക്കും ആ കോശങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം ഇവ വലിച്ചെടുക്കും മനുഷ്യർ ഈ പ്രശ്നത്തിന് കാരണം ഇതിനകത്താണ് എന്ന് മനസ്സിലാക്കുന്നത് വരെ ഇവർ വിജയിച്ചു കൊണ്ടിരിക്കും മനുഷ്യർക്ക് ഉള്ളിൽ തന്നെ ഈ റോഗ് നേഷൻ അല്ലെങ്കിൽ റോഗ് സെൽ ഉണ്ട് എന്നും അവർക്ക് പലതും കാണിക്കാൻ സാധിക്കും എന്നുള്ളത് മനുഷ്യർ മനസ്സിലാക്കണം ഇവിടെ മറ്റൊരു ഉദാഹരണം വരികയാണ് വളരെക്കാലം ആൾക്കാർ ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് പുരുഷ ബീജം അണ്ഡവുമായി ചേരുമ്പോൾ അതായത് ഒരു പുരുഷനും സ്ത്രീയും ഒന്നിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്നു അപ്പോൾ അവിടെ ആദ്യം ഉണ്ടാകുന്നത് സിക്കാണ്ഡമാണ് അപ്പോൾ പുരുഷ ബീജം ഇങ്ങനെ ചിന്തിക്കൂ പുരുഷ ബീജം അണ്ഡവുമായി ചേരുമ്പോൾ നിങ്ങൾക്ക് ഒരു സിക്താണ്ഡം അല്ലെങ്കിൽ 2n കിട്ടും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ട് ഉണ്ടാകും ഇവിടെ സിക്താണ്ഡം ഒരു കൂട്ടം കോശങ്ങളായി മാറുന്നു അവ പിന്നീട് ഒരു ഭ്രൂണമായി മാറുന്നു അവസാനം ഒരു കുഞ്ഞായി മാറും ഈ ഓരോ ഓരോ ഘട്ടത്തെ കുറിച്ച് നോക്കുക ആദ്യം ഈ കോശങ്ങൾക്ക് ഒരു കോളനിയും ഉണ്ടായിരുന്നില്ല കാരണം അത് വളരെ മുമ്പുള്ള അവസ്ഥയാണ് പിന്നീട് ഈ കോശങ്ങൾ പലതരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് മായി ഒത്തുചേർന്നു പോകുന്നു തുടക്കത്തിൽ എല്ലാ കോശങ്ങളും ഒരുമിച്ചിരുന്നു ചേർന്നിരിക്കുന്നു അതിനു മാത്രമായിട്ടുള്ള എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് വരുന്നു ഒന്നു അതിനുശേഷം ഒരു 10 കോശങ്ങൾ അവക്ക് മാത്രമായ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഉണ്ടാകുന്നു മറ്റൊരു 10 കോശങ്ങൾ വേറെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഉണ്ടാക്കുന്നു ഇത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ കോശങ്ങൾക്ക് ഏത് തരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് എടുക്കാൻ പറ്റും ആ അവസ്ഥയിൽ നോക്കുമ്പോൾ ഈ കോശങ്ങളെല്ലാം ഈ കോശങ്ങളുമായി നല്ല സാമ്യമില്ല അത് നമുക്ക് കാൻസറിനെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ ഉള്ള ഇടവരുത്തുന്നു ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറൽ ഡിസോർഡർ അല്ലേ എന്ന് അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ട കാരണം അതിന് അർത്ഥം വേറൊരു അവസ്ഥയാണ് ഇതിന് ഒരു ഡെവലപ്മെൻറൽ പാരാടിം എന്ന് നമുക്ക് പറയാം മറ്റാരുടെ കയ്യിൽ നിന്നും നമുക്ക് വാക്കുകൾ കടം എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങൾ ഒന്നും മനസ്സിൽ കാണാൻ ശ്രമിക്കൂ ഒരു കോശം ഒരുകൂട്ടം കോശമായി മാറുകയും അവരുടെ കോളനികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇവിടെ ചുവപ്പ് പച്ച ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിറം കൊടുക്കുന്നു എന്നേയുള്ളൂ ഈ കോശങ്ങൾ നേരത്തെ എല്ലാം ഒരുപോലെ ഇരിക്കുകയായിരുന്നു ഭാവി ഉത്തരം തരാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ ഈ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉയർന്നു വരാൻ പോകുന്ന ചില മേഖലകളാണ് മെക്കനോബയോളജിയും ഈസിഎം മെറ്റീരിയൽ ൻറെ സെല്ലുലാർ കെമിസ്ട്രിയും ഇവിടെ നമ്മൾ വേറൊരു ചോദ്യത്തിലേക്ക് എത്തുകയാണ് ഏതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറൽ ഈസിഎം ഇവിടെ ഞാൻ നാച്ചുറൽ ഈസിഎം എന്ന് പറയാൻ കാരണമുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഈ വെസ്സലിന്റെ മുകളിൽ ആവരണം ചെയ്യാൻ പറ്റിയ നാച്ചുറൽ ഇസിഎം അതിനു മുകളിലാണ് കോശങ്ങൾ വളരുന്നത് പിന്നെ ഏതൊക്കെയാണ് സിന്തറ്റിക് ഈസിഎം എന്നുള്ളത് എന്ന് വെച്ചാൽ ഇതാണ് നാച്ചുറൽ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇതിനെ പോലെ പ്രവർത്തിക്കുന്ന സിന്തറ്റിക് ഈസിഎം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഏതാണോ നാച്ചുറൽ ഇസിഎംന്റെ സ്വഭാവം അതുപോലെ കാണിക്കുന്നത് അവരെ നമ്മൾ സിന്തറ്റിക് ഈസിഎം എന്നു പറയുന്നു നമ്മൾ അതിനെ കുറിച്ച് ബയോഓർഗാനിക് രീതിയിൽ തൊട്ട് ഇനോർഗാനിക് രീതിയിൽ വരെ സംസാരിക്കും പക്ഷേ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും രീതിയിലുള്ള വെസ്സലുകൾ ഉണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിവിടെ അഞ്ചാമത്തെ ഭാഗത്തിലെത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ ആഴ്ചയിലെ അഞ്ചാമത്തെ ഭാഗം നമ്മൾ ഏകദേശം തീർക്കാറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഉള്ള വെസ്സലുകൾ ഉണ്ട് അവയുടെ മുകളിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം ഈ വ്യത്യാസങ്ങൾ വരുത്തുന്നത് ഏതുതരത്തിലുള്ള കോശങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നത് അനുസരിച്ചിരിക്കും നമുക്ക് നാച്ചുറൽ രീതിയിൽ അല്ലെങ്കിൽ സിന്തറ്റിക് രീതിയിൽ പോകാം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒട്ടിപ്പിടിക്കുന്ന കോശങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു നമ്മൾ സംസാരിച്ചത് കാർഡിയാക് മസിൽ സ്കെലിട്ടൽ മസിൽ ന്യൂറോൺ പല ന്യൂറോണുകൾക്കുംപല പല ആവശ്യങ്ങളാണ് വരുന്നത് അതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് പിന്നെ സംസാരിക്കാം പിന്നെ വരുന്നത് പാൻക്രിയാറ്റിക് കോശങ്ങളും കരളിൻറെ കോശങ്ങളും അങ്ങനെ ഈ പട്ടിക നീണ്ടുപോകും ഇവിടെ അപ്പോൾ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ തരത്തിലുള്ള കോശങ്ങൾക്കും അവരുടേതായ ഈ സി എം ഉണ്ട് അതിൻറെ കൂടെ റോഗ് സെൽസ് കൂടി ഉണ്ട് ഇവരെ നമുക്ക് റോഗ് സെൽസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ അവയുടെയുടെ ആരംഭത്തിൽ ചെന്ന് നടപടിക്രമങ്ങൾ മാറ്റുന്നവ എന്നും പറയാം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് അത് ക്യാന്സറിനുള്ള ഉത്തരം ഡെവലപ്മെൻറൽ പാരാടിമിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ നമുക്ക് ഒരു മാട്രിക്സ് ഉണ്ടാക്കിയാലോ ക്യാൻസറിനെ പിടിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് ഈ ക്യാൻസർ കോശങ്ങൾ മത്സരം വെച്ച് സബ്സ്ട്രേറ്റുമായി ബന്ധം സ്ഥാപിക്കുന്നു എപ്പോഴാണ് അവ ഇങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ വരുന്നത് ആ സമയം ഇവയിൽ മരണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സബ്സ്ട്രേറ്റ് നമുക്ക് മാറ്റിക്കൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിക്കൂടെ നിങ്ങൾ സമയത്തിന് അതീതമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ വളരെ വലിയ വ്യത്യാസം കാൻസറിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ സർഫസ് കെമിസ്ട്രിയിലൂടെ ചിന്തിച്ചുനോക്കൂ അപ്പോൾ ഇങ്ങനെ ഒരു ആശയം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച നോക്കാം